കഴിഞ്ഞ കുറച്ച് സെഷനുകളിൽ സിവിപി മാർജിനൽ കോസ്റ്റിംഗ് എന്നിവ ഞങ്ങൾ ചർച്ച ചെയ്തു പ്രൊഡക്റ്റ് മിക്സ് പോലുള്ള വ്യത്യസ്ത തരത്തിലുള്ള തീരുമാനങ്ങൾ ഉൾപ്പെടുന്ന നിരവധി കേസുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് തുടർന്ന് പ്രൊജക്ഷനുകൾ ഉൾപ്പെടുന്ന നിരവധി കേസുകളും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ ബജറ്റിംഗിനെക്കുറിച്ചുള്ള രസകരമായ അടുത്ത വിഷയത്തിലേക്ക് പോകും അത് ചിലപ്പോൾ ബഡ്ജറ്ററി കൺട്രോൾ എന്നറിയപ്പെടുന്നു ആമുഖം ലക്ഷ്യങ്ങൾ നേട്ടങ്ങൾ ഘടകങ്ങൾ വിവിധ തരത്തിലുള്ള ബജറ്റുകൾ എന്നിവയെക്കുറിച്ചും സീറോ ബേസ് ബജറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ചും സംസാരിക്കുന്ന വിഷയത്തിന്റെ ഹ്രസ്വ സൂചികയാണിത് നിങ്ങൾ എല്ലാവരും ബഡ്ജറ്റിനെ കുറിച്ചു കേട്ടിട്ടുണ്ടെന്നു ഞാൻ വിചാരിക്കുന്നു നിങ്ങളിൽ ഭൂരിഭാഗവും അത് ധനമന്ത്രി അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിനെക്കുറിച്ചോ നിങ്ങളുടെ സ്വന്തം കമ്പനിയിൽ ഉണ്ടാക്കുന്ന ബജറ്റിനെക്കുറിച്ചോ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഈ ബജറ്റ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൌണ്ടിംഗിന്റെ സാങ്കേതികതകളിൽ ഒന്നാണ് അത് വിപുലമായ പ്രയോഗക്ഷമതയുള്ളതാണ് ഇന്ന് ഇത് വളരെ ജനപ്രിയമായ സാങ്കേതികതയായി മാറിയിരിക്കുന്നു ഇത് മിക്കവാറും എല്ലാ ജീവിത മേഖലകളിലും ഉപയോഗിക്കുന്നു കോർപ്പറേഷനുകൾ എൻജിഒകൾ സർക്കാർ ഓർഗനൈസേഷനുകൾ എന്നിവ വിപുലമായ തോതിൽ ഇത് ഉപയോഗിക്കുന്നു കൂടാതെ ഇത് ഒരു ആസൂത്രണ ഉപകരണമായും നിയന്ത്രണ ഉപകരണമായും തീരുമാനമെടുക്കൽ ഉപകരണമായും ഉപയോഗിക്കുന്നു എന്നതാണ് വളരെ രസകരമായ ഒരു കാര്യം BEP അല്ലെങ്കിൽ CVP പിന്നെ PV അനുപാതം ഇവ പോലുള്ള സാങ്കേതിക വിദ്യകൾ അവയിൽ മിക്കതും തീരുമാനമെടുക്കുന്നതിന് ഉപയോഗപ്രദമാണ് എന്ന് നിങ്ങൾക്കറിയാം സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പോലുള്ള ചില സാങ്കേതിക വിദ്യകളുണ്ട് അവ നിയന്ത്രണ ആവശ്യങ്ങൾക്ക് കൂടുതലും ഉപയോഗപ്രദമാണ് എന്നാൽ ബജറ്റ് നിയന്ത്രണം വളരെ സവിശേഷമായ ഒരു സാങ്കേതികതയാണ് നിയന്ത്രണ ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമാണ് പ്രധാനമായും ഇത് നിയന്ത്രണത്തിന് വേണ്ടിയുള്ളതാണ് എന്നാൽ ഇത് തീരുമാനമെടുക്കുന്നതിലും ഉപയോഗപ്രദമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഉപയോഗപ്രദമാണ് ബജറ്റിനെക്കുറിച്ച് കുറച്ചുകൂടി സംസാരിക്കാം ബജറ്റ് ഒരു ഏകദേശ പ്രസ്താവനയാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അടുത്ത കാലയളവിലേക്കാണ് ബജറ്റ് എപ്പോഴും തയ്യാറാക്കുന്നത് അതിനാൽ ഇത് നിങ്ങൾക്ക് ഒരുതരം ലക്ഷ്യം സജ്ജീകരിക്കുന്നു ബജറ്റിന്റെ ഉദ്ദേശ്യം ചില ലക്ഷ്യങ്ങൾ കൈവരിക്കുക എന്നതാണ് കൂടാതെ നിങ്ങൾക്ക് വിവിധ ബജറ്റുകൾ ഉണ്ടാക്കാൻ കഴിയും കാരണം ഞങ്ങൾ ചെലവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ബജറ്റുകൾ പ്രധാനമായും ചിലവിനുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ അവ വരുമാനത്തിനോ ആകാം അല്ലെങ്കിൽ നിക്ഷേപ ലക്ഷ്യങ്ങളായ മൂലധനത്തിന്റെ ഫലപ്രദമായ ഉപയോഗത്തിനാകാം അതായത് നിക്ഷേപത്തിനാകാം എന്നാലും അവ പ്രധാനമായും നിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്നു ഒരു സ്റ്റാൻഡേർഡ് സജ്ജീകരിക്കുന്നതിന് ബജറ്റ് ഉപയോഗപ്രദമാണ് തുടർന്ന് നമുക്ക് യഥാർത്ഥമായത് രേഖപ്പെടുത്തുകയും നൽകിയിരിക്കുന്ന ബജറ്റുമായോ മുൻകൂട്ടി നിശ്ചയിച്ച ബജറ്റുമായോ താരതമ്യം ചെയ്യാം ഇപ്പോൾ ഇത് ബജറ്റിന്റെ ഒരു നിർവചനമാണ് ഒരു നിശ്ചിത ലക്ഷ്യത്തിൽ പങ്കെടുക്കുന്നതിനായി ആ ഉദ്ദേശ്യത്തിൽ പിന്തുടരേണ്ട നയത്തിന്റെ ഒരു നിശ്ചിത കാലയളവിന് മുമ്പ് തയ്യാറാക്കി അംഗീകരിക്കപ്പെട്ട ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് പ്രസ്താവനയായി ബഡ്ജറ്റിനെ നിർവചിക്കാം അപ്പോൾ നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ അത് ബജറ്റാണോ ഇത് ഒരു എസ്റ്റിമേറ്റ് ആയി കണക്കാക്കാം പക്ഷേ പല കാരണങ്ങളാൽ ഇത് ഒരു ബജറ്റല്ല കാരണം ആ മഴ സംഭവിക്കാൻ നമ്മൾ പ്രത്യേകമായി ഒരു ജോലിയും ചെയ്യുന്നില്ല ഇത് ഒരു അളവുകോലല്ല പക്ഷേ 20 സെന്റീമീറ്റർ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അത് ബജറ്റ് ആകുമോ ഇപ്പോഴും അല്ല ഇപ്പോൾ അത് ഒരു അളവ് പ്രസ്താവനയാണ് ഇത് സംഭവിക്കുന്നതിന് മുമ്പ് നിർമ്മിച്ചതാണ് പക്ഷേ ഇത് ഒരു പ്രത്യേക ഉദ്ദേശ്യവുമായി ബന്ധപ്പെട്ടതല്ല ഒരു പ്രത്യേക കോഴ്സിൽ ഞങ്ങൾക്ക് 95 ശതമാനം സ്കോർ ലഭിക്കണമെന്ന് വിദ്യാർത്ഥികളായ നിങ്ങൾ തീരുമാനിക്കുക അത് ഒരു ബജറ്റായിരിക്കുമോ ഇത് നിങ്ങളുടെ ലക്ഷ്യമാണെന്നും ഒരു കോർപ്പറേറ്റ് ഒരു ബിസിനസ്സ് ഒരു ഗവൺമെൻറ് എന്നിവയ്ക്കായി അത് നേടുന്നതിന് ഒരു നയമുണ്ട് ചില ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് എല്ലാവരും ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ വളരെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്നും അടുത്ത മാസത്തിൽ വിൽപ്പന ഗണ്യമായി വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും ഒരു സെയിൽസ് മാനേജർ പറയുന്നു ഇത് ഒരു ബജറ്റായിരിക്കുമോ ഒരു നയമുണ്ട് വിൽപ്പന വർദ്ധിപ്പിക്കാനുള്ള ശ്രമമുണ്ട് ഇപ്പോഴും അത് ബജറ്റല്ല കാരണം അത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ് അല്ല ഇത് ഗണ്യമായി വർദ്ധിക്കുമെന്ന് പറഞ്ഞാൽ അത് ബജറ്റ് ആക്കുന്നില്ല നമ്മുടെ വിൽപ്പന 80 ശതമാനം വർദ്ധിക്കുമെന്ന് ആ വ്യക്തി പറയുന്നുവെന്ന് കരുതുക അപ്പോൾ നിങ്ങൾക്കതിനെ ബജറ്റായി കണക്കാക്കാം എന്നാൽ വിൽപ്പന 80 ശതമാനം വർദ്ധിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ഒരു ബജറ്റ് അല്ല കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് വരുന്ന മാസത്തെ വിൽപ്പനയിൽ 80 ശതമാനം വർധനയുണ്ടാകുമെന്ന് ഒരാൾ പറയുമ്പോൾ അതൊരു ബജറ്റ് ആണ് കാരണം ആ കോഡ് നേടുന്നതിന് ഒരു നിശ്ചിത സമയ കാലയളവും പ്രേരിപ്പിക്കുന്ന നയവും ഉണ്ടായിരിക്കും ഇനി ബജറ്റ് നിയന്ത്രണം കാരണം ബജറ്റ് സജ്ജീകരണം മാത്രം പോരാ നിങ്ങൾ യഥാർത്ഥമായത് രേഖപ്പെടുത്തുകയും ബഡ്ജറ്റുമായി യാഥാർത്ഥ്യങ്ങളെ താരതമ്യം ചെയ്യുകയും വ്യതിയാനങ്ങളിൽ എത്തിച്ചേരുകയും തിരുത്തൽ നടപടികൾ കൈക്കൊള്ളുകയും വേണം ഇതെല്ലാം ചേർന്ന് ബജറ്റ് നിയന്ത്രണമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ബജറ്റ് നിയന്ത്രണം എന്നതിനർത്ഥം ചില എക്സിക്യൂട്ടീവുകളുടെ ഉത്തരവാദിത്തങ്ങൾ നിശ്ചയിക്കുന്ന ബജറ്റിന്റെ സ്ഥാപനം ഉണ്ടെന്നാണ് കാരണം ഒരു ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ അത് തകർക്കേണ്ടതുണ്ട് ഒരു വ്യക്തിഗത വകുപ്പ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരാൾ അറിഞ്ഞിരിക്കണം ആ വകുപ്പിൽ ഉത്തരവാദിത്തമുള്ള വ്യക്തിയോ നേതാവോ ചെയ്യേണ്ടത് എന്താണ് എന്നും ഒരാൾ അറിഞ്ഞിരിക്കണം ഇതെല്ലാം ബ്രോക്കൻ ഡൌൺ ആവണം അതിനാൽ ബജറ്റ് ഫലങ്ങൾ ഒന്നുകിൽ വ്യക്തിഗത പ്രവർത്തനത്തിലൂടെ സുരക്ഷിതമാക്കണം അല്ലെങ്കിൽ അതിന്റെ പുനരവലോകനത്തിന് ഒരു അടിത്തറയെങ്കിലും ഉണ്ടായിരിക്കണം അപ്പോൾ ബജറ്റ് നിയന്ത്രണത്തിന്റെ ശരിയായ പ്രക്രിയ കൈവരിക്കും ഇപ്പോൾ ബജറ്റിന്റെ ലക്ഷ്യങ്ങൾ ആദ്യ ലക്ഷ്യവും പ്രാഥമിക ലക്ഷ്യവും ആസൂത്രണമാണ് കാരണം ബജറ്റ് അടിസ്ഥാനപരമായി ഒരു പദ്ധതിയാണ് ഇത് ലക്ഷ്യങ്ങളുടെ ഒരു കൂട്ടമാണ് ഇത് വ്യക്തിഗതമായോ ഗ്രൂപ്പായോ ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പലപ്പോഴും അത്യന്താപേക്ഷിതമാണ് കാരണം ലക്ഷ്യങ്ങൾ ശരിയായി സജ്ജീകരിക്കാത്തിടത്തോളം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആ ദിശയിലല്ല ബജറ്റ് ഉറപ്പുനൽകുന്നത് എന്തെന്നാൽ ഒരു കാലഘട്ടം നിർവചിക്കുകയും ലക്ഷ്യം നിർവചിക്കുകയും ആ ലക്ഷ്യം കൈവരിക്കുകയും ചെയ്യുക എന്നതാണ് അതിനാൽ ആസൂത്രണം ജീവനക്കാരെ പ്രചോദിപ്പിക്കുക മാത്രമല്ല മൊത്തത്തിലുള്ള തീരുമാനമെടുക്കൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു അതിനാൽ ബഡ്ജറ്റിംഗിന്റെ ഭാഗമാണെങ്കിൽ മുഴുവൻ ആസൂത്രണ പ്രക്രിയയും ഗണ്യമായി മെച്ചപ്പെടുന്നു അതിനാൽ ബജറ്റിംഗിന്റെ പ്രാഥമിക ലക്ഷ്യം അതാണ് പക്ഷേ ബജറ്റിംഗ് അവിടെ അവസാനിക്കുന്നില്ല അടുത്തത് സംവിധാനമാണ് ഇപ്പോൾ ബിസിനസ്സ് വളരെ സങ്കീർണ്ണമാണ് അതിന് ഔപചാരികമായ ദിശയും ഏകോപനവും ആവശ്യമാണ് അതിനാൽ ഔപചാരികമായ അന്തിമ ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ വിഭവങ്ങൾ ശരിയായ രീതിയിൽ ഡയറക്റ്റ് ചെയ്യുക എന്നതാണ് വേണ്ടത് ഞങ്ങൾക്ക് വ്യത്യസ്ത വകുപ്പുകളോ വ്യത്യസ്ത പ്രവർത്തനങ്ങളോ ഉണ്ട് അതിനാൽ ബജറ്റിംഗിൽ ഓരോ ഫംഗ്ഷനും ഏകോപനം നടത്തുകയും അതനുസരിച്ച് അതത് പ്രവർത്തനത്തിന് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു അങ്ങനെ വ്യക്തിഗത വകുപ്പുകളുടെ ലക്ഷ്യങ്ങളും അന്തിമ ലക്ഷ്യവും കൈവരിക്കുന്നു മൂന്നാമത്തേത് നിയന്ത്രണമാണ് അതിനാൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു അതനുസരിച്ചു ഡയറക്റ്റ് ചെയ്യുന്നു ഇപ്പോൾ യഥാർത്ഥ പെർഫോമൻസ് രേഖപ്പെടുത്തുകയും അത് ബജറ്റ് പെർഫോമൻസുമായി തുടർച്ചയായി താരതമ്യം ചെയ്യുകയും ചെയ്യും അങ്ങനെ ഒരു ഫീഡ്ബാക്ക് സംവിധാനം വികസിപ്പിച്ചെടുക്കും നമ്മുടെ ലക്ഷ്യങ്ങൾ നല്ല രീതിയിൽ കൈവരിക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങളുടെ ശ്രമങ്ങൾ തുടരാനോ അല്ലെങ്കിൽ കൂടുതൽ നേടാനുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കാനോ ഞങ്ങൾ ശ്രമിക്കും നമുക്ക് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ ചില തിരുത്തൽ നടപടികൾ ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഞങ്ങളുടെ ശ്രമങ്ങൾ അതിനനുസരിച്ച് പരിഷ്കരിക്കപ്പെടുകയും ഫലങ്ങൾ കൈവരിക്കുന്നത് അസാധ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന അടിയന്തിര സാഹചര്യത്തിൽ ഞങ്ങൾ ബജറ്റ് പരിഷ്കരിക്കുകയും ചെയ്യും ഇതെല്ലാം നിയന്ത്രണ സംവിധാനത്തിന്റെ ഭാഗമാകും അതിനാൽ പ്ലാനിംഗ് ഡിറെക്ടിങ് കൺട്രോളിങ് ഇവ മൂന്നുമാണ് പ്രധാന ലക്ഷ്യങ്ങൾ ഇപ്പോൾ ബജറ്റ് നിയന്ത്രണ സംവിധാനത്തിന്റെ പ്രയോജനങ്ങൾ നോക്കുന്നു ആദ്യത്തേത് മികച്ച ആസൂത്രണമാണ് ആസൂത്രണമാണ് ബജറ്റിന്റെ അനിവാര്യവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘടകമെന്ന് ഞങ്ങൾ ഇതിനകം കണ്ടു ഒരു നല്ല പ്ലാൻ അർത്ഥമാക്കുന്നത് 50 ശതമാനം ജോലികൾ കഴിഞ്ഞു എന്നാണ് ബജറ്റ് അത് നന്നായി ഏകോപിപ്പിച്ചു കൊണ്ടുള്ളതാണെന്നും അത് ക്വാണ്ടിറ്റിയെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ഉറപ്പുനൽകുന്നു അതിനാൽ ബജറ്റിൽ കൂടുതൽ മികച്ച പ്ലാനിംഗ് നടക്കുന്നു തുടർന്ന് വിഭവങ്ങളുടെ മെച്ചപ്പെട്ട വിഹിതം ഉണ്ട് കാരണം ഓരോ വകുപ്പും അല്ലെങ്കിൽ ബിസിനസിന്റെ ഓരോ ഭാഗവും ഓരോ ഫംഗ്ഷനും അവരുടെ പരിശ്രമങ്ങൾ ഏകോപിപ്പിക്കേണ്ടതുണ്ട് അവർക്ക് ആവശ്യമായ വിഭവങ്ങൾ ലഭിക്കണം അവരിൽ ചിലർ കൂടുതൽ വിഭവങ്ങൾ അനാവശ്യമായി തടയുന്നുണ്ടാകാം എല്ലാ വിഭവങ്ങളും അന്തിമ ലക്ഷ്യത്തിന്റെ നേട്ടത്തിനായി മാറ്റാൻ കഴിയുന്ന തരത്തിൽ ശരിയായതും ന്യായവുമായ വിഹിതം നടക്കുന്നുണ്ടെന്ന് ബജറ്റിംഗ് ഉറപ്പാക്കുന്നു മൂന്നാമത്തേത് ലക്ഷ്യങ്ങളുടെ ശരിയായ ആശയവിനിമയമാണ് ബജറ്റിന്റെ അഭാവത്തിൽ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർക്കോ പ്രവർത്തനങ്ങൾക്കോ അവർ കൃത്യമായി എന്താണ് നേടേണ്ടതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഏറ്റവും മികച്ചത് നേടുക കഴിയുന്നത്ര നേടുക എന്ന് എല്ലാവരും പറഞ്ഞാൽ അത് ഗോളും ടാർജറ്റും തമ്മിലുള്ള ശരിയായ ആശയവിനിമയം ആകുന്നില്ല ബഡ്ജറ്റിംഗിൽ ആത്യന്തികമായി നേടേണ്ടതെന്തും തകർന്നുപോകുന്നതെന്തെന്നും ടാർഗറ്റ് എന്തെന്നും എങ്ങനെ ശരിയായി ഡെലിവറി ചെയ്യണമെന്നും ഓരോ സിസ്റ്റവും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഓരോ വ്യക്തിയും അറിയുന്നു അതിനാൽ ഇത് ശരിയായ ആശയവിനിമയമായി വർത്തിക്കുന്നു അടുത്തത് മാനേജർമാർക്ക് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താൻ ഇത് പ്രാപ്തമാക്കുന്നു എന്നതാണ് കാരണം എന്താണ് നേടേണ്ടതെന്ന് ഇപ്പോൾ അവർക്ക് അറിയാം അതിനാൽ അവരുടെ പ്രവർത്തനങ്ങൾ അത് നേടിയെടുക്കാൻ കഴിയുന്നതായിരിക്കും ഒരു പാതി മനസ്സും ഉണ്ടാകില്ല കാരണം ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങൾ കാര്യക്ഷമമായിരിക്കുന്നതിനാൽ കൂടുതൽ പരിശ്രമിച്ചാലും കുറഞ്ഞ പരിശ്രമം നടത്തിയാലും മനസ് സമ്പൂർണ്ണമായിരിക്കും അടുത്തത് ഇത് അളവുകോൽ നൽകുന്നു കാരണം നല്ല ആസൂത്രണം ചെയ്താൽ നമുക്ക് യാഥാർഥ്യം രേഖപ്പെടുത്താൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് നന്നായി നിർവചിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ ഉള്ളിടത്തോളം കാലം അത് മതിയായതാണോ അല്ലയോ എന്നത് നിർവചിക്കാൻ സാധിക്കും അത് അവർ തങ്ങളുടെ ഏറ്റവും മികച്ച നേട്ടം കൈവരിച്ചു എന്ന തോന്നൽ എപ്പോഴും അവരിൽ ഉണ്ടാക്കും ബജറ്റിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഡെലിവറബിളുകൾ നന്നായി നിർവചിച്ചിരിക്കുന്നു അതിനാൽ ഒരാൾക്ക് വളരെ വസ്തുനിഷ്ഠമായ രീതിയിൽ പ്രകടനം അളക്കാനും വിലയിരുത്താനും കഴിയും പ്രകടനത്തിന്റെ വസ്തുനിഷ്ഠമായ മൂല്യനിർണ്ണയത്തിനുള്ള വളരെ നല്ല അളവുകോലായി ഇത് പ്രവർത്തിക്കുന്നു അപ്പോൾ അത് വ്യതിയാനങ്ങൾ വെളിപ്പെടുത്തുന്നു അതിനാൽ യഥാർത്ഥ ഡാറ്റ ലഭ്യമായാലുടൻ അത് താരതമ്യം ചെയ്യാം നിങ്ങൾ നേടിയെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒരാൾക്ക് അറിയാൻ കഴിയും അത് പെട്ടെന്നുള്ള അവലോകന പ്രക്രിയയെ സഹായിക്കുന്നു കാരണം ലക്ഷ്യങ്ങൾ കൈവരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരിശ്രമം തുടരാം ലക്ഷ്യങ്ങൾ നേടിയില്ലെങ്കിൽ തിരുത്തൽ നടപടികൾ കാലതാമസമില്ലാതെ സ്വീകരിക്കാം കൂടാതെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റം നടപ്പിലാക്കുന്നതിന് അനുയോജ്യമായ വ്യവസ്ഥകൾ സൃഷ്ടിക്കുന്നു എന്നതാണ് അവസാന കാര്യം കാരണം ബജറ്റിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ജീവനക്കാർക്കും വകുപ്പുകൾക്കും വസ്തുനിഷ്ഠമായ ലക്ഷ്യങ്ങളായി വർത്തിക്കാൻ കഴിയുന്ന മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഭാവി നയങ്ങളും ലക്ഷ്യങ്ങളും രൂപപ്പെടുത്തുന്നതിനുള്ള വ്യവസ്ഥാപിത അടിത്തറയായി ബജറ്റ് പ്രവർത്തിക്കുന്നു എന്നതാണ് അടുത്ത പോയിന്റ് കാരണം നടപ്പുവർഷത്തെ ബജറ്റ് സാധാരണയായി അടുത്ത വർഷത്തെ ബജറ്റിന് അടിസ്ഥാനമാകും ചെലവുകളുടെ ലക്ഷ്യങ്ങൾ ഇപ്പോൾ അറിയാവുന്നതിനാൽ ഇത് ചെലവ് ബോധത്തിന്റെ ഒരു ധാരണ ഉളവാക്കുന്നു അതിനാൽ ജീവനക്കാർക്ക് ചെലവ് കുറയ്ക്കാനോ അവരുടെ ചെലവ് നിയന്ത്രിക്കാനോ കഴിയും അതേ സമയം ഒരു ലക്ഷ്യബോധവും ഉണ്ടാകും ലക്ഷ്യം അറിയാവുന്നതിനാൽ ലക്ഷ്യത്തിനായി ഞങ്ങൾ ശ്രമങ്ങൾ നടത്തും അവസാന പോയിന്റ് വിവിധ വിഭവങ്ങളുടെ കാര്യക്ഷമമായ വിനിയോഗം ആണ് കാരണം ആസൂത്രണം ശരിയായി നടക്കുകയും നിർവ്വഹണവും തിരുത്തൽ നടപടികളും സമയബന്ധിതമായി നടത്തുകയും ചെയ്യുന്നു അതിനാൽ വിവിധ വിഭവങ്ങളുടെ ഫലപ്രദമായ ഉപയോഗം സാധ്യമാകുന്നു അതിനാൽ ബജറ്റ് നിയന്ത്രണ സംവിധാനത്തിന്റെ വിവിധ ഗുണങ്ങൾ ഞങ്ങൾ കണ്ടു ഇനി നമുക്ക് ഘടകങ്ങൾ നോക്കാം ഇപ്പോൾ ഒരു പ്രത്യേക കാലയളവിലെ ബിസിനസ്സിന്റെ പോളിസി ഒരു മാസ്റ്റർ ബജറ്റാണ് അത് മുഴുവൻ കമ്പനിക്കും വേണ്ടിയുള്ള ബജറ്റാണ് അല്ലെങ്കിൽ അത് സർക്കാർ ബജറ്റാണെന്ന് കരുതുക എന്നിരുന്നാലും ഇത് മുഴുവൻ സർക്കാരിന് വേണ്ടിയുള്ള ബജറ്റാണ് തുടർന്ന് മാസ്റ്റർ ബജറ്റ് ഒരു പ്രത്യേക ഫംഗ്ഷന്റെ ബജറ്റ് ആയതിനാൽ മാസ്റ്റർ ബജറ്റ് ഫംഗ്ഷണൽ ബജറ്റുകളായി വിഭജിക്കപ്പെടുന്നു വിവിധ തരത്തിലുള്ള ബജറ്റുകൾ ഇവയാണ് ഇതിനെ ഇങ്ങനെ വേർതിരിക്കാം ഫിക്സഡ് വേർസ്സ് ഫ്ലെക്സിബിൾ ഫംഗ്ഷണൽ വേഴ്സസ് മാസ്റ്റർ ലോങ്ങ് ടെം വേർസ്സ് ഷോർട് ടെം അവസാന തരം സീറോ ബേസ് ബജറ്റാണ് അതിനാൽ ആദ്യത്തെ തരം ഫിക്സഡ് വേർസ്സ് ഫ്ലെക്സിബിൾ ആണ് ഇപ്പോൾ ഫിക്സഡ് ബജറ്റ് കൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് അത് പേരിനാൽ തന്നെ സ്വയം വിശദീകരിക്കുന്നതാണ് എന്താണ് സ്ഥിരമാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നു ഇവിടെ അനുമാനങ്ങൾക്ക് മാറ്റമില്ല എന്തെങ്കിലും സംഭവിക്കാനുള്ള ഒരു നിശ്ചിത തലത്തിലുള്ള സാധ്യത കാണുകയും ചെയ്യുന്നു അതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ ഒരു ബജറ്റിൽ പ്രവർത്തിക്കും അതിൽ നിന്ന് വ്യതിചലനത്തിന് കൂടുതൽ സാധ്യതയില്ല അതേസമയം ഒരു ഫ്ലെക്സിബിൾ ബജറ്റിൽ അനുമാനങ്ങൾ മാറാൻ സാധ്യതയുള്ള ഒരു ചലനാത്മക സാഹചര്യം നിങ്ങൾ അനുമാനിക്കുന്നു വിപണികൾ ഗണ്യമായി മാറാൻ സാധ്യതയുണ്ട് പ്രവർത്തന നിലവാരം അതിനനുസരിച്ച് മാറാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് വിവിധ തലങ്ങൾക്കായി ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലാണ് ബജറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിനാൽ സ്ഥിര ബജറ്റ് അത് മാറ്റമില്ലാതെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു പ്രവർത്തന നിലവാരത്തിന് ഇത് വലിയ പ്രാധാന്യം നൽകുന്നില്ല ഇപ്പോൾ ഇത് ഫിക്സഡ് കോസ്റ്റിനു കൂടുതൽ ഉപയോഗപ്രദമാണ് ഇപ്പോൾ ചലനാത്മകമായ ഒരു സാഹചര്യത്തിന് ഇത് ഉപയോഗപ്രദമല്ല കാരണം വിൽപ്പന യൂണിറ്റുകളുടെ മാറ്റത്തിന്റെ തോത് അനുസരിച്ച് നിങ്ങളുടെ ലേബർ മെറ്റീരിയലിന്റെ വില നിങ്ങളുടെ പ്രധാന ചെലവാണെങ്കിൽ ആ ചെലവുകൾ മാറാൻ സാധ്യതയുണ്ട് അതിനാൽ അവിടെ നിശ്ചിത ബജറ്റ് വളരെ അനുയോജ്യമല്ല ഇപ്പോൾ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ഫ്ലെക്സിബിൾ ബജറ്റാണ് ഇപ്പോൾ ഫ്ലെക്സിബിൾ ബജറ്റ് നിരവധി തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഉത്തരവാദിത്ത കേന്ദ്രത്തിന്റെ പ്രതീക്ഷിച്ച ഫലം കാണിക്കുന്നു അതിനാൽ നിങ്ങൾ 1000 യൂണിറ്റ് നേടുമെന്ന് പറയുന്നതിന് പകരം 1000 യൂണിറ്റ് വിൽപ്പനയാണെങ്കിൽ ഇവയാണ് ചെലവ് എന്ന് നിങ്ങൾക്ക് പറയാം 1100 1200 ഇവയാണ് ചിലവെങ്കിൽ നമ്മൾ സാധ്യമായ വിവിധ നിരകൾ നിർമ്മിക്കും അതിനാൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഘടനാപരമായതാണ് ഇത് സ്റ്റാറ്റിക് ബജറ്റുകളുടെ ഒരു പരമ്പരയാണ് ഇപ്പോൾ ഫ്ലെക്സിബിൾ ബജറ്റ് നിർമ്മിക്കുന്നതിന് ചെലവിനെ ഫിക്സഡ് വേരിയബിൾ സെയിം വേരിയബിൾ എന്നിങ്ങനെ തരംതിരിക്കേണ്ടത് ആവശ്യമാണ് കാരണം നിങ്ങൾ ഇപ്പോൾ സാധ്യമായ വ്യത്യസ്ത തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്കായി നോക്കുന്നു കൂടാതെ വ്യത്യസ്ത തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ചെലവുകൾ മാറാൻ പോകുന്നു ഇപ്പോൾ സാധാരണയായി ഓരോ കാലയളവിലും യൂണിറ്റുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാകും വിവിധ വാണിജ്യ സ്ഥാപനങ്ങളിൽ ഫ്ലെക്സിബിൾ ബജറ്റുകൾ കൂടുതൽ ഉപയോഗപ്രദമാണ് എന്നിരുന്നാലും ചില വ്യവസായ സ്ഥാപനങ്ങൾക്കോ സർക്കാർ സ്ഥാപനങ്ങൾക്കോ സാഹചര്യത്തിന്റെ ആവശ്യകത അനുസരിച്ച് ടാർഗെറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാകും അതിനാൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്സ് വളരെ ഉപയോഗപ്രദമാണ് ഇപ്പോൾ രണ്ടാമത്തെ തരം ക്ലാസ്സിഫിക്കേഷൻ ഫംഗ്ഷനെ സംബന്ധിച്ചുള്ളതാണ് ഇപ്പോൾ ഓരോ ഫംഗ്ഷൻ അനുസരിച്ച് മാസ്റ്റർ ബജറ്റ് വിഭജിച്ചിരിക്കുന്നു കൂടാതെ ഓരോ ഫംഗ്ഷനും ഞങ്ങൾ ഒരു ബജറ്റ് തയ്യാറാക്കും അത് ഫംഗ്ഷണൽ ബജറ്റ് എന്നറിയപ്പെടുന്നു ഉദാഹരണത്തിന് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനായി നിങ്ങൾക്ക് ഒരു പർച്ചേസ് ബജറ്റ് ഉണ്ടായിരിക്കും അത് ഏത് ഇനത്തിന്റെ എത്ര യൂണിറ്റുകൾ ഏത് നിരക്കിൽ മൊത്തം വില എത്രയായിരിക്കുമെന്ന് വ്യക്തമാക്കും അതിനാൽ അത്തരത്തിലുള്ള പർച്ചേസ് ബജറ്റുകൾ ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഓരോ മാസത്തിലും ഡെവലപ്പ് ചെയ്യും സെയിൽസ് ബജറ്റ് ഉണ്ടാകും അതിനാൽ മാർക്കറ്റിംഗ് ടീം സെയിൽസ് കണക്കാക്കും അവർ അതിനെ ഉൽപ്പന്ന ലൈനുകളുടെ സെയിൽസ് യൂണിറ്റുകളായി വിഭജിക്കുകയും അത് സ്വീകരിക്കുകയോ റിക്കവർ ചെയ്യുകയോ ചെയ്യും അതിനാൽ ഒരു വിൽപ്പന ബജറ്റ് ഉണ്ടാകും അതുപോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ ബജറ്റ് പ്ലാന്റ് യൂട്ടിലൈസേഷൻ ബജറ്റ് ക്യാഷ് ബജറ്റ് തുടങ്ങിയവയും ഉണ്ടാകാം സ്ലൈഡിൽ വ്യക്തമാക്കിയതല്ലാതെ മറ്റെന്തെങ്കിലും ബജറ്റിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു നിർമ്മാണ വ്യവസായത്തിലാണെങ്കിൽ ഫാക്ടറി ചെലവ് ബജറ്റ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പരസ്യ ചെലവ് ബജറ്റ് ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു R ആൻഡ് D ബജറ്റ് ഉണ്ടായിരിക്കാം അതിനു കുറഞ്ഞ പരിധിയുണ്ട് ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്ന ഓരോ ഫംഗ്ഷനും നിങ്ങൾ പ്രത്യേക ബജറ്റ് ഉണ്ടാക്കും ഞാൻ പ്രത്യേക ബജറ്റ് പറഞ്ഞപ്പോൾ അത് മുഴുവൻ ബജറ്റിന്റെ ഭാഗമാണ് എന്നാൽ ആ പ്രത്യേക വകുപ്പിന് ഒരു പ്രത്യേക ഭാഗം നൽകിയിട്ടുണ്ട് അത് പ്രവർത്തന ബജറ്റ് എന്നറിയപ്പെടുന്നു ഇപ്പോൾ ഈ ബജറ്റുകളെ ഫിസിക്കൽ ബജറ്റുകൾ കോസ്ററ് ബജറ്റുകൾ പ്രോഫിറ്റ് ബജറ്റുകൾ എന്നിങ്ങനെ തരംതിരിക്കാം ഇതൊരു ഫിസിക്കൽ ബജറ്റാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ അത് അളവുകളെക്കുറിച്ചാണ് പറയുന്നത് അതിനാൽ അത് വിൽപ്പനയോ ഉൽപ്പാദനമോ ഇൻവെന്ററിയോ ആകട്ടെ അത് വിൽപ്പന യൂണിറ്റുകൾ ഉൽപ്പാദന യൂണിറ്റുകൾ മുതലായവ നൽകുന്നു മനുഷ്യശക്തിയുടെ കാര്യം വരുമ്പോൾ ഏത് തരത്തിലുള്ള കഴിവുകളുള്ള എത്ര ജീവനക്കാർ ആവശ്യമാണ് എത്ര ജോലികൾ ചെയ്യണം എത്ര മണിക്കൂർ ജോലി ചെയ്യും അതെല്ലാം ഒരു ഫിസിക്കൽ ബജറ്റായിരിക്കും പിന്നെ കോസ്റ്റ് ബജറ്റുകൾ ഉണ്ട് ഇവിടെ മൊത്തം ചെലവ് വ്യക്തമാക്കിയിരിക്കുന്നു അത് നിർമ്മാണ ചെലവ് അഡ്മിൻ ചെലവ് ആർ ആൻഡ് ഡി ചെലവ് എന്നിവ ആകാം അവയെ കോസ്റ്റ് ബജറ്റ് എന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് പ്രോഫിറ്റ് ബജറ്റുകളും ഉണ്ട് നിങ്ങൾ വരുമാനവും ചെലവും താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള പ്രോഫിറ്റ് ബജറ്റുകൾ ലഭിക്കും പിന്നീട് ഒരു മാസ്റ്റർ ബജറ്റ് ഉണ്ട് ഇത് എല്ലാ ഫംഗ്ഷണൽ ബജറ്റുകളുടെയും ഏകീകൃത ബജറ്റാണ് കാരണം ഓരോ ഫംഗ്ഷണൽ ബജറ്റും പരസ്പരം ഏകോപിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് അതിനാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു സംഗ്രഹം ഉണ്ടാക്കാം സാധാരണയായി അത് ആ പ്രത്യേക ഡിവിഷൻ ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ മുഴുവൻ കമ്പനിയ്ക്കായി ബജറ്റ് ചെയ്ത P ആൻഡ് L അക്കൌണ്ടും പ്രവചിച്ച ബാലൻസ് ഷീറ്റും പോലെ അവതരിപ്പിക്കും ദീർഘകാല ബജറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ടൈംലൈൻ അനുസരിച്ച് നിങ്ങൾക്ക് ബജറ്റുകളെ തരംതിരിക്കാനും കഴിയും സാധാരണഗതിയിൽ ഒരു വർഷത്തിൽ കൂടുതലുള്ള ഏതൊരു ബജറ്റും ദീർഘകാല ബജറ്റ് ആണ് അതിനാൽ ഉയർന്ന തലത്തിലുള്ള മാനേജ്മെന്റ് അവർ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ പ്രോജക്ടുകൾ പോലെ ചില തന്ത്രപരമായ ചിന്തകൾ നടത്തും എന്തെല്ലാം മൂലധന ചെലവുകളാണ് നിർദ്ദേശിക്കുന്നത് ഏത് R ആൻഡ് D ആണ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നത് അത്തരം ബജറ്റുകൾ സാധാരണയായി 3 വർഷം 5 വർഷം 10 വർഷം എന്നിങ്ങനെയാണ് ഒരു രാജ്യത്തിന് അത് 20 വർഷവും 50 വർഷവും ആകാം അതിനെ ദീർഘകാല ബജറ്റ് എന്ന് വിളിക്കുന്നു തുടർന്ന് ദീർഘകാല ബജറ്റ് ഹ്രസ്വകാല ലക്ഷ്യങ്ങളായി വിഭജിക്കപ്പെടും അത് ഹ്രസ്വകാല ബജറ്റായി കണക്കാക്കും സാധാരണയായി ഇത് ഒരു വർഷത്തേക്കോ ഒരു വർഷത്തിൽ താഴെയോ ആണ് തയ്യാറാക്കുന്നത് അതിനാൽ ക്യാഷ് ബഡ്ജറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് അല്ലെങ്കിൽ പർച്ചേസ് ബഡ്ജറ്റ് പോലെയുള്ള ബജറ്റുകൾ വളരെ കുറഞ്ഞ കാലയളവിലേക്കാണ് അത് 1 വർഷമോ 3 മാസമോ ആകാം നിങ്ങൾക്ക് ഒരു മാസത്തേക്കോ ഒരാഴ്ചത്തേക്കോ ഉള്ള ചുരുങ്ങിയ സമയത്തേക്കുള്ള ഒരു കറന്റ് ബജറ്റ് ഉണ്ടാക്കാം അതിനെ കറന്റ് ബജറ്റ് എന്ന് വിളിക്കാം ഇപ്പോൾ ബജറ്റിംഗിലെ അടുത്ത പ്രധാന ആശയത്തിലേക്ക് വരുന്നു അത് സീറോ ബേസ് ബജറ്റിംഗ് എന്നറിയപ്പെടുന്നു ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ മിക്ക ബജറ്റുകളും കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ അവസാന കാലയളവുകളിലെ ബജറ്റിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ നിലവിലെ കാലയളവിലേക്ക് ബജറ്റ് നിർമ്മിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ അവസാന കാലയളവുകളുടെ ബജറ്റ് എടുക്കും തുടർന്ന് അത് നിലവിലെ ബജറ്റുമായി താരതമ്യം ചെയ്യുക അതിനാൽ അവസാന കാലയളവിലെ ബജറ്റിൽ നിങ്ങൾക്ക് മാറ്റത്തിന്റെ സാഹചര്യത്തിനനുസരിച്ച് 5 ശതമാനം 10 ശതമാനം 15 ശതമാനം എന്നിവ ചേർത്ത് നിലവിലെ ബജറ്റ് ഉണ്ടാക്കാം എന്നാൽ സീറോ ബേസ് ബജറ്റിൽ സംഭവിക്കുന്നത് എന്തെന്നാൽ നിങ്ങൾ ഒരു കരുതലോടെ ആരംഭിക്കുക എന്നതാണ് അതിനാൽ ഇത് ആദ്യത്തെ ബജറ്റാണെന്ന് നിങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്നറിയപ്പെടുന്ന തരത്തിലുള്ള സിസ്റ്റത്തെ നിലവിലെ കാലയളവിലേക്ക് ന്യായീകരിക്കാൻ കഴിയാതെ മുൻ ബജറ്റ് സ്വീകരിക്കില്ല അതിനാൽ ഇതാണ് ഔപചാരിക നിർവചനം ഓരോ ചെലവ് ഘടകങ്ങളും അല്ലെങ്കിൽ ഓരോ പ്രവർത്തനവും പുതിയതിനെ ന്യായീകരിക്കേണ്ട ബജറ്റിംഗിന്റെ ഒരു രീതിയാണിത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇത് ചെയ്തു അതിനാൽ ഈ വർഷവും ഈ പണം അനുവദിക്കൂ എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനാവില്ല ഈ വർഷം പണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് കഴിഞ്ഞ കാലയളവിൽ അനുവദിച്ചതാണോ അല്ലയോ എന്ന് നോക്കാതെ തന്നെ അനുവദിക്കുന്നതായിരിക്കും അതിനാൽ നിലവിലെ ബജറ്റ് പ്രക്രിയയിൽ ഫണ്ടിംഗ് ലഭിക്കുന്നതിന് ഓരോ പ്രവർത്തനവും സ്വയം പുതുമയോടെ ന്യായീകരിക്കേണ്ടതുണ്ട് അതിനാൽ എല്ലാ പ്രവർത്തനങ്ങളും സ്വയം ന്യായീകരിക്കാൻ തുടക്കത്തിൽ തന്നെ ആരംഭിക്കേണ്ടതുണ്ട് ഇപ്പോൾ സീറോ ബേസ് ബഡ്ജറ്റിന് ധാരാളം ഗുണങ്ങളുണ്ട് കാരണം എല്ലാ പ്രവർത്തനങ്ങളും അവയുടെ അവതരണങ്ങളും അവയുടെ റാങ്കും മുൻഗണനയുടെ ക്രമം അനുസരിച്ച് ദൌർലഭ്യമുള്ള വിഭവങ്ങൾ അനുവദിക്കുന്ന വളരെ ചിട്ടയായ സമീപനമാണിത് അതിനാൽ ഇത് ഒരു പരമ്പരാഗത ബജറ്റിനേക്കാൾ മികച്ച വിഭവങ്ങൾ വിനിയോഗിക്കുന്നു ഇപ്പോൾ എല്ലാ വർഷവും ന്യായീകരണം കാരണം നിർണ്ണായക പ്രവർത്തനങ്ങൾ മാത്രമാണ് എടുക്കുന്നത് റിസോഴ്സ് വീണ്ടും അനുവദിക്കാനുള്ള അവസരമുണ്ട് കാരണം ഇപ്പോൾ ബജറ്റിന്റെ റിസോഴ്സ് ചെയ്യുമ്പോഴെല്ലാം കോസ്റ്റ് ബെനിഫിറ്റ് വിശകലനം നടത്തും കൂടാതെ ധാരാളം പാഴ് ചെലവുകൾ തിരിച്ചറിയപ്പെടുന്നു ഇന്ന് അനാവശ്യമായ ചില ചിലവുകൾ നിങ്ങൾ വഹിക്കേണ്ടി വന്നേക്കാം എന്നാൽ പരമ്പരാഗത ബജറ്റിംഗ് രീതി കാരണം അവ തുടരുന്നു സീറോ ബേസ് ബജറ്റിംഗിൽ അത്തരം ചെലവുകൾ തിരിച്ചറിയുകയും പിന്നീട് അവ ഇല്ലാതാക്കുകയും ചെയ്യാം സീറോ ബേസ് ബജറ്റിംഗിലും ചില പ്രശ്നങ്ങളുണ്ട് കാരണം ഇത് വളരെ സമയമെടുക്കുന്ന പ്രക്രിയയാണ് ബജറ്റ് അംഗീകരിക്കാൻ വളരെ സമയമെടുക്കും താൽപ്പര്യം ഇല്ലാത്ത ധാരാളം ആളുകൾ ഉണ്ടാകാം അതിനാൽ അവർ സാധാരണയായി സീറോ ബജറ്റിംഗ് സിസ്റ്റത്തെ എതിർക്കുന്നു അതുകൊണ്ടാണ് സർക്കാരുകൾക്കോ ഓർഗനൈസേഷനുകൾക്കോ ZBB സംവിധാനം നടപ്പിലാക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളത് എന്നാൽ ഗുണങ്ങൾ കണക്കിലെടുത്ത് ഇത് വളരെ ഉപയോഗപ്രദമായ ആശയമായി തുടരുന്നു ആവശ്യത്തിന് അവസരമുള്ളിടത്തെല്ലാം ഇത് പ്രയോഗിക്കാൻ കഴിയും സമയവും ശരിയായ മൂല്യനിർണ്ണയത്തിനുള്ള സാധ്യതയും ഉണ്ട് അങ്ങനെ ബജറ്റിന്റെ വിവിധ ആശയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ഇതോടെ ഞങ്ങൾ ഇവിടെ നിർത്തുന്നു